ചാലകങ്ങളുടെ റെസിപ്രോസിറ്റി തിയറം I ഒരു ഇലക്ട്രിക്ക് കണ്ടക്ടർ അഥവാ വൈദ്യുത ചാലകത്തിനു സമീപം ഇലക്ട്രിക്ക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക്ക് ഫീൽഡ് ഇലക്ട്രിക്ക് ചാർജ് ഇവ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊരു ചോദ്യം ഉന്നയിക്കുകയാണ് നമുക്ക് പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കുറച്ചു ചാലകങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നു കരുതുക ഇവയുടെ സമീപത്തേക്ക് Q 1 Q 2 Q 3 എന്നിങ്ങനെ ചാർജുകൾ അല്ലെങ്കിൽ ഒരു ചാർജ് വിന്യാസം 1 r കൊണ്ടുവരികയാണെന്നു കരുതുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ചാർജുകൾ ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ടാക്കുന്നു അതുകാരണം ഈ ചാലകങ്ങളിലെല്ലാം സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎 ഉണ്ടാകുന്നു ഇവയോരോന്നിലുമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V 1 V 2 V 3 യും സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎1 𝜎2 𝜎3 യും ആണെന്നിരിക്കട്ടെ ഇപ്പോൾ കണ്ട അതെ അവസ്ഥയിൽ അതായത് ഇതേ ചാലകങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ഡെൻസിറ്റി 2 r ഉം വേറെ ചില ചാർജുകളുമാക്കി മാറ്റി എന്താണ് കിട്ടുന്നതെന്നു നോക്കാം അപ്പോൾ നമ്മൾ രണ്ടു വ്യത്യസ്ത ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഉദാഹരണത്തിൽ പൊട്ടൻഷ്യൽ V1ʹ V2ʹ V3ʹ ഉം സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎1ʹ 𝜎2ʹ 𝜎3ʹ ഉം ആണെന്നിരിക്കട്ടെ ഈ രണ്ടു വ്യത്യസ്ത അവസ്ഥകളും തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം ഇവ രണ്ടും ഒരേ രീതിയിലുള്ള അവസ്ഥകളാണ് അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ പറ്റുമോയെന്നു നോക്കാം എനർജിയുമായി ബന്ധപ്പെടുത്തി വളരെ മനോഹരമായി ഇത് സാധിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് റെസിപ്രോസിറ്റി തിയറം ആണ് ഇത് ഗണിത ശാസ്ത്രപരമായി ഗ്രീൻസ് തിയറം Greens Theorem പ്രയോഗിച്ച് തെളിയിക്കാമെങ്കിലും നമ്മൾ ഇവിടെ അത് ചെയ്യുന്നില്ല അതിനുപകരം നമ്മൾ ഇവിടെ എനർജി കണ്ടുപിടിച്ച് രണ്ടു അവസ്ഥയെയും തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ് ഈ പ്രവർത്തനം നിങ്ങൾക്ക് വളരെ രസകരമായിരിക്കും അടുത്തതായി ഞാൻ ഈ പ്രതീകങ്ങൾ അല്പമൊന്നു മാറ്റുകയാണ് ഇവിടെയും ഒരു വൈദ്യുത ചാലകം സങ്കല്പിക്കുകയാണ് ഈ ചാലകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണുള്ളത് അതിനടുത്തുള്ള ഒരു ചാർജ് വിന്യാസം 𝜌1 കാരണം ചാലകത്തിൽ മാത്രമല്ല ആ മേഖല മുഴുവൻ പൊട്ടൻഷ്യൽ V1 ആയിരിക്കും ഈ ചാലകത്തിന്റെ പൊട്ടൻഷ്യൽ V1 ഉം സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎1 ഉം ആണെന്നിരിക്കട്ടെ ഉദാഹരണമായി എനിക്ക് ഇവിടെ ഒരു ഗോളാകൃതിയിലുള്ള പ്രതലം ഉണ്ടെന്നിരിക്കട്ടെ അതിനു മുന്നിലായി ഞാൻ ഒരു പോസിറ്റീവ് ചാർജ് Q വെക്കുകയാണ് ഇത് കാരണം ചാർജിനടുത്തുള്ള വശത്ത് നെഗറ്റീവ് ചാർജും ചാർജിൽ നിന്നും അകലെയുള്ള ഭാഗത്തു പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു അഥവാ പ്രേരിതമാക്കപ്പെടുന്നു ഇതുകാരണം ഗോളത്തിലാകമാനം ഒരു പൊട്ടൻഷ്യൽ V1 ഉണ്ടാകുന്നു ഇതാണ് ഒന്നാമത്തെ അവസ്ഥ അടുത്തതായി അതെ ചാലകത്തിനു മുന്നിലായി ചാർജ് വിന്യാസം 𝜌2 ഉണ്ടെന്നിരിക്കട്ടെ ഇതുകാരണമുള്ള പൊട്ടൻഷ്യൽ V2 ഉം സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎2 ഉം ആണെന്നിരിക്കട്ടെ ഉദാഹരണമായി ഇതിനോട് സമാനമായി ചാർജ് Q എടുത്തതിനുപകരം ഞാൻ ഒരു ലൈൻ ചാർജ് എടുക്കുന്നു ഇനി രണ്ടു അവസ്ഥകളും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് അതായത് ഒന്നാമത്തെ അവസ്ഥയും രണ്ടാമത്തെ അവസ്ഥയും ഒന്നാമത്തേതിൽ ചാർജ് വിന്യാസം 𝜌1 കാരണം ചാലകത്തിന്റെ പൊട്ടൻഷ്യൽ V1 ഉം സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎1 ഉം ആണ് രണ്ടാമത്തെ അവസ്ഥയിൽ ചാർജ് വിന്യാസം 𝜌2 കാരണം ചാലകത്തിന്റെ പൊട്ടൻഷ്യൽ V2 ഉം സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎2 ഉം ആണ് റെസിപ്രോസിറ്റി തിയറത്തിലേക്കെത്താനായി നമ്മൾ ആദ്യം ചില നിരീക്ഷണങ്ങൾ നടത്താം ഇതിനെകുറിച്ച് നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ നിരീക്ഷണങ്ങൾ അതിവ്യാപന തത്വം അഥവാ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ തത്വം അനുസരിച്ച് നമുക്ക് രണ്ടു ചാർജുകളുണ്ടെങ്കിൽ ഇവ കാരണമുള്ള ആകെ ഫീൽഡ് ഇവയോരോന്നും കാരണമുള്ള ഫീൽഡിന്റെ ആകെത്തുകയായിരിക്കും ഇതിനർത്ഥം എന്താണ് പൊട്ടൻഷ്യൽ V ചാർജ് ഡെൻസിറ്റി 𝜌 മായി നേർ അനുപാതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് അതുകൊണ്ടാണ് ഫീൽഡുകളുടെ സങ്കലനം സാധ്യമാകുന്നത് അതായത് ചാർജ് ഡെൻസിറ്റി 𝜌 കാരണം പൊട്ടൻഷ്യൽ V ഉണ്ടെങ്കിൽ ചാർജ് ഡെൻസിറ്റി f ✕ 𝜌 ആയാൽ പൊട്ടൻഷ്യൽ f ✕V ആകുന്നു അതായത് ഇവിടെ രേഖീയ ബന്ധം അഥവാ ലീനിയർ ഡിപെൻഡൻസ് ആണെന്നർത്ഥം ഫാക്ടർ f ഒന്നിനേക്കാൾ കൂടുതലോ കുറവോ ആകാം അടുത്തതായി നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടു സന്ദർഭങ്ങളും എടുക്കാം ഇവിടെ ചാർജ് ഡെൻസിറ്റി 𝜌1 നെ 𝜌2 മായി ബന്ധപ്പെടുത്തി എഴുതാം അതായത് f 0 ആകുമ്പോൾ ചാർജ് ഡെൻസിറ്റി 𝜌1 ആകുന്നു അതുപോലെ തന്നെ f 1 ആകുമ്പോൾ ചാർജ് ഡെൻസിറ്റി 𝜌2 ആകുന്നു ചാർജ് ഡെൻസിറ്റി പോലെ തന്നെ പൊട്ടൻഷ്യൽ V1 നെ V2 മായി ബന്ധപ്പെടുത്താം f ന്റെ വാല്യൂ 0 മുതൽ 1 വരെ മാറ്റിയാണ് V1 ൽ നിന്നും V2 ലേക്കെത്തുന്നത് അടുത്തതായി നമുക്ക് ഒന്നാമത്തെ ചാർജ് വിന്യാസത്തിന്റെ എനർജി എത്രയെന്നു നോക്കാം എനർജി അഥവാ വർക്ക് ഇവിടെ രണ്ടാമത്തെ പദം സർഫേസ് ചാർജ് വിന്യാസം കാരണമുള്ള എനർജി ആണ് അടുത്തതായി ചാർജ് വിന്യാസം മാറ്റി മറ്റൊന്നാക്കുമ്പോൾ എനർജി W2 എത്രയായിരിക്കുമെന്ന് നോക്കാം

അപ്പോൾ ഞാനിവിടെ എനർജി W1 ൽ നിന്നും W2 ആക്കിയിരിക്കയാണ് 𝜌 യിൽ മാറ്റം വരുത്തിയും ഇത് ചെയ്യാവുന്നതാണ് ഇതിനായി എന്താണ് ചെയ്യേണ്ടത് ഇതിനായി 𝜌1 നും 𝜌2 നും മധ്യേയുള്ള ഒരു ഡെൻസിറ്റി 𝜌 എടുക്കാം ഇവിടെ അതുപോലെ V1 നും V2 നും ഇടയിലുള്ള പൊട്ടൻഷ്യൽ V എന്നത് f ൽ df വ്യത്യാസം വരുത്താനായി ചെയ്യേണ്ടിവരുന്ന വർക്ക് df 𝜌2 𝜌1 ആണ് അധികമായി കൊണ്ട് വരുന്ന ചാർജ് ഡെൻസിറ്റി df 𝜎2 𝜎1 ആണ് അധികമായി ഉപരിതലത്തിൽ വരുന്ന സർഫേസ് ചാർജ് ഡെൻസിറ്റി V ന്റെ സബ്സ്റ്റിട്യൂഷൻ ചെയ്ത് df നെ 0 1 ഇന്റഗ്രേറ്റ് ചെയ്ത് ഇത് ഒന്ന് കൂടെ വ്യക്തമാക്കി എഴുതുമ്പോൾ രണ്ടാമത്തെ പദം സൌകര്യത്തിനായി സർഫേസ് ടെം എന്ന് എഴുതാം അതായത് സർഫേസ് ടേമിൽ df 𝜌2 𝜌1 എന്നതിനുപകരം df 𝜎2 𝜎1 ആയിരിക്കും ഉണ്ടാവുക f ലുള്ള ഇന്റഗ്രേഷൻ 0 1 ലിമിറ്റിൽ ചെയ്തു കഴിയുമ്പോൾ ഇത് നേരത്തെ കിട്ടിയ നോട് തുല്യമായിരിക്കും ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് ചെയ്യാനായി നീക്കി വെക്കുന്നു ഇത് ചെയ്തിട്ട് റിസൾട്ട് എഴുതണം ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മളിവിടെ ഒരു അവസ്ഥയിലുള്ള പൊട്ടൻഷ്യലും ഡെൻസിറ്റിയും മറ്റൊരു അവസ്ഥയിലുള്ള പൊട്ടൻഷ്യലും ഡെൻസിറ്റിയുമായി ബന്ധപ്പെടുത്തി ഇത് തന്നെ ആണ് റെസിപ്രോസിറ്റി തിയറം ഒരു അവസ്ഥയിലുള്ള പൊട്ടൻഷ്യലും ഡെൻസിറ്റിയും അറിയാമെങ്കിൽ ഈ തിയറം ഉപയോഗിച്ച് ഒരു നിശ്ചിത ജ്യോമെട്രി യിലുള്ള മറ്റൊരു അവസ്ഥയിലുള്ള റിസൾട്ട് വളരെ ഫലപ്രദമായി കാണാവുന്നതാണ് നമുക്കിവിടെ വളരെ ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം ഉദാഹരണം 1 d അകലത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചാർജ് കാരണം ഒരു ഗോളാകൃതിയിലുള്ള ചാലകത്തിലുള്ള പൊട്ടൻഷ്യൽ കാണണമെന്നിരിക്കട്ടെ ഇതാണ് ചാർജ് Q ഇത് ഒട്ടും തന്നെ ചാർജ് ഇല്ലാത്ത ഈ ഗോളത്തിൽ നിന്നും d ദൂരത്തിലാണ് എനിക്ക് ഈ ഗോളത്തിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഈ ചാർജ് കാരണം ഗോളത്തിലാകമാനം ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും ഗോളത്തിന്റെ റേഡിയസ് R ആണ് ഗോളത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ചാർജിലേക്കുള്ള ദൂരം d ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ റെസിപ്രോസിറ്റി തിയറത്തിനുപകരം മറ്റൊരു രീതി ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടും റെസിപ്രോസിറ്റി തിയറം ഉപയോഗിച്ചുകിട്ടുന്ന റിസൾട്ടും ഒന്നാണെന്ന് നമുക്ക് ഇവിടെ കാണിക്കാം ഇവിടെയുള്ള ചാർജ് Q ഗോളത്തിന്റെ ചാർജിനു സമീപത്തുള്ള വശത്ത് കൂടുതൽ സാന്ദ്രതയിൽ നെഗറ്റീവ് ചാർജും മറുവശത്ത് കുറഞ്ഞ സാന്ദ്രതയിൽ പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യിക്കുന്നു എന്നാൽ ഗോളത്തിലാകെയുള്ള ചാർജ് 0 ആയിരിയ്ക്കും ഗോളത്തിലാകമാനം ഒരേ പൊട്ടൻഷ്യൽ V ആയതുകാരണം ഗോളത്തിന്റെ കേന്ദ്രത്തിലുള്ള പൊട്ടൻഷ്യൽ എളുപ്പം കണ്ടുപിടിക്കാം ഈ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും ഇത് ചാർജ് Q കാരണമുള്ള പൊട്ടൻഷ്യലും ഗോളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലും ചേർന്നതായിരിക്കും ഇത് കാണാനായി ഗോളത്തിന്റെ ഉപരിതലത്തിലുള്ള ചാർജുകളെ Qi ചാർജ് വീതമുള്ള വളരെ ചെറിയ ചെറിയ യൂണിറ്റുകളായി വിഭജിച്ച് ഇവയോരോന്നും കാരണമുള്ള പൊട്ടൻഷ്യലിന്റെ സമ്മേഷൻ അഥവാ ആകെത്തുക എടുക്കണം ഉപരിതലത്തിലുള്ള ഈ യൂണിറ്റുകളെല്ലാം തന്നെ കേന്ദ്രത്തിൽ നിന്നും R ദൂരത്തിലായിരിക്കുമല്ലോ അപ്പോൾ ഇതിൽ ആദ്യത്തെ പദം ബാഹ്യ ചാർജ് Q കാരണമുള്ളതും രണ്ടാമത്തെ പദം ഗോളത്തിന്റെ ഉപരിതലത്തിലുള്ള ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജുകൾ കാരണമുള്ളതുമാണ് പക്ഷെ നമുക്കറിയാം Q i 0 ആണെന്ന് അതുകൊണ്ട് അടുത്തതായി ഇത് റെസിപ്രോസിറ്റി തിയറം ഉപയോഗിച്ച് ചെയ്യാം റെസിപ്രോസിറ്റി തിയറത്തിൽ ഞാൻ രണ്ടു വ്യത്യസ്ത സന്ദർഭങ്ങൾ എടുക്കുകയാണ് ഒന്നിൽ നേരത്ത പറഞ്ഞതുപോലെ തന്നെ ചാർജ് Q ഗോളരൂപത്തിലുള്ള ചാലകത്തിൽ നിന്നും R ദൂരത്തിൽ സ്ഥിതിചെയ്യുന്നു രണ്ടാമത്തെ കേസിൽ ബാഹ്യ ചാർജ് ഒന്നും തന്നെയില്ല എന്നാൽ ഗോള രൂപത്തിലുള്ള ചാലകത്തിന് q എന്ന ചാർജ് നൽകിയിട്ടുണ്ട് ഈ രണ്ടു സന്ദർഭത്തിലും എന്താണ് ലഭിക്കുന്നതെന്ന് നോക്കൂ ഒന്നാമത്തെ കേസിൽ ഗോളത്തിന്റെ കേന്ദ്രം ഒറിജിനായി എടുത്താൽ വലത്തോട്ട് പോസിറ്റീവ് X ദിശയായി എടുക്കാം അപ്പോൾ ചാർജ് ഡെൻസിറ്റി ഉപരിതലത്തിൽ ചാർജ് ഡെൻസിറ്റി 𝜎 1 എന്നെടുക്കാം എന്നാൽ നമുക്കറിയാം ഗോളത്തിന്റെ ഉപരിതലത്തിലും ഗോളത്തിലാകമാനവും ഈ മേഖലയിലും V1 എന്ന പൊട്ടൻഷ്യൽ ഉണ്ട് അടുത്തതായി രണ്ടാമത്തെ സന്ദർഭമെടുക്കാം ഇവിടെ 𝜌2 അതായത് ചാർജ് ഡെൻസിറ്റി സീറോ ആയിരിക്കും കാരണം ഇവിടെ ഗോളത്തിനു പുറത്തു ചാർജ് ഒന്നും തന്നെയില്ല എന്നാൽ സർഫേസ് ചാർജ് ഡെൻസിറ്റി 𝜎 2 സീറോ അല്ല അതുപോലെ തന്നെ സർഫേസ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ നമുക്കിവിടെ V2 𝜎 2 𝜌2 ഇവ അറിയാം ഇനി V1 കണ്ടുപിടിക്കണം ഇതിനായി റെസിപ്രോസിറ്റി തിയറം ഇവിടെ പ്രയോഗിക്കുകയാണ് എന്താണ് റെസിപ്രോസിറ്റി തിയറം ഞാനിതിവിടെ എഴുതുകയാണ്

ഇവിടെ 𝜌2 0 ആണല്ലോ അപ്പോൾ ഒന്നാമത്തെ പദം സീറോ ആകുന്നു അതായത് V12dv0 ആകുന്നു V1surface ആണ് കണ്ടുപിടിക്കേണ്ടത് ഇത് ഉപരിതലത്തിൽ മുഴുവൻ ഒരേ വാല്യൂ ആയിരിക്കും കാരണം ഇതൊരു ചാലകമാണല്ലോ അപ്പോൾ V1surface നമുക്ക് ഇന്റെഗ്രലിനു പുറത്തേക്കെടുക്കാം 2 ds q അഥവാ ആകെ ചാർജ് ആണ് അപ്പോൾ രണ്ടാമത്തെ പദം qV1surface എന്നാകുന്നു ഇക്വേഷന്റെ വലതു വശത്ത് ആദ്യത്തെ പദത്തിൽ അപ്പോൾ r d ആകുമ്പോൾ v V2 1 dv 1 4 0 q d Q എന്നാകുന്നു അടുത്ത പദത്തിൽ V 2 കോൺസ്റ്റന്റ് ആണ് മാത്രമല്ല 1 ds 0 അപ്പോൾ ഇതെല്ലം ചേരുമ്പോൾ q ക്യാൻസൽ ചെയ്താൽ അങ്ങനെ റെസിപ്രോസിറ്റി തിയറം എന്താണെന്ന് ഈ ഉദാഹരണത്തിലൂടെ മനസിലാക്കിയല്ലോ അടുത്ത ക്ലാസ്സിൽ റെസിപ്രോസിറ്റി തിയറം ഉപയോഗിച്ച് മറ്റൊരു പ്രോബ്ലം കൂടെ ചെയ്യാം